ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ വ്യാവസായിക ഇന്റർനെറ്റ് സിസ്റ്റങ്ങളുടെ ചില അടിസ്ഥാനകാര്യങ്ങളിലൂടെ കടന്നുപോകും അതിനാൽ വ്യാവസായിക ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഒരു കാര്യമാണ് അതും ഇൻഡസ്ട്രിയൽ ഐഒടിയ്ക്കൊപ്പം സമീപ വർഷങ്ങളിൽ വളരെ പ്രചാരത്തിലുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി ഈ രണ്ട് ശ്രമങ്ങളും സ്വഭാവത്തിൽ തികച്ചും സമാനമാണെങ്കിലും അവയുടെ ഉത്ഭവം അല്പം വ്യത്യസ്തമാണ് അതിനാൽ വ്യാവസായിക ഇന്റർനെറ്റിന്റെ ഉത്ഭവം അടിസ്ഥാനപരമായി ഈ പദം വ്യാവസായിക ഇന്റർനെറ്റ് ഉപയോഗിച്ച ഡിജിറ്റൽ വ്യവസായ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത വ്യാവസായിക IoT പോലെയല്ല ഇത് എന്നാൽ പലപ്പോഴും വ്യവസായങ്ങളിലെ ആളുകൾ പരസ്പരം മാറിമാറി ഉപയോഗിക്കാറുണ്ട് അതിനാൽ ജനറൽ ഇലക്ട്രിക് മറ്റ് കുറച്ച് അംഗങ്ങളുമായി ചേർന്ന് വ്യാവസായിക ഇന്റർനെറ്റ് കൺസോർഷ്യം IIC സ്ഥാപിച്ചു ഈ കൺസോർഷ്യം ബോഡിയാണ് ഭാവിയിൽ ഈ വ്യാവസായിക ഇന്റർനെറ്റ് രൂപപ്പെടുത്തുന്നതിനുള്ള പ്രധാന കളിക്കാരനാണ് ഇത് വ്യാവസായിക തലത്തിൽ കടന്നുവന്ന നവീകരണത്തിന്റെ മൂന്ന് തരംഗങ്ങളുണ്ട് ആദ്യത്തെ തരംഗം വ്യാവസായിക വിപ്ലവം രണ്ടാം തരംഗത്തിൽ ഇന്റർനെറ്റ് വിപ്ലവം മൂന്നാമത്തെ തരംഗം വ്യവസായങ്ങളിൽ ഈ വ്യാവസായിക ഇന്റർനെറ്റ് ആണ് ഇത് കമ്പനി ജനറൽ ഇലക്ട്രിക് അനുസരിച്ച് വ്യവസായങ്ങൾ കടന്നുപോയ വലിയ വർഷങ്ങളിൽ വ്യാവസായിക മേഖലയിലെ വിപ്ലവം അവർ ദൃശ്യവത്കരിച്ചത് ഇങ്ങനെയാണ് ഇവ അടിസ്ഥാനപരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു വേവ് ഒന്ന് വ്യാവസായിക വിപ്ലവം വേവ് രണ്ട് ഇന്റർനെറ്റ് വിപ്ലവം വേവ് ത്രീ വ്യാവസായിക ഇന്റർനെറ്റ് അങ്ങനെ വ്യാവസായിക വിപ്ലവം 150 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു 1970 കളിൽ അത് ആരംഭിച്ച് 1900 ന്റെ തുടക്കത്തിൽ അവസാനിച്ചു അതിനാൽ അത് വ്യവസായ വിപ്ലവമായിരുന്നു ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു ആദ്യ ഘട്ടം വാണിജ്യവൽക്കരണവും സ്റ്റീം എഞ്ചിനുകളുടെ വൻതോതിലുള്ള ഉൽപാദനവുമായിരുന്നു അതിനാൽ അതായിരുന്നു ആദ്യ ഘട്ടം അത് 18 ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ആരംഭിച്ചു രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാനപരമായി 1870 ൽ ആരംഭിച്ചു കൂടാതെ ഐസി എഞ്ചിനുകൾ ആന്തരിക ജ്വലന എഞ്ചിനുകൾ വൈദ്യുതി എന്നിവയുടെ കണ്ടുപിടുത്തത്തോടെ അതിനാൽ ഐസി എഞ്ചിനുകളുടെ കണ്ടുപിടുത്തത്തിന്റെ തുടക്കം അടിസ്ഥാനപരമായി ഗതാഗത മേഖലയിൽ വളരെയധികം വികസനത്തിന് കാരണമായി അതിനാൽ അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത എഞ്ചിനുകൾ പെട്രോൾ എഞ്ചിനുകൾ ഡീസൽ എഞ്ചിനുകൾ ഈ വ്യത്യസ്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഐസി എഞ്ചിനുകളുടെ കണ്ടുപിടുത്തത്തിന്റെ ഫലമാണ് വൈദ്യുതിയും വിവിധ തരത്തിലുള്ള പുരോഗതികൾ കൊണ്ടുവരുന്നു വ്യത്യസ്ത തരം ആശയവിനിമയങ്ങൾ വ്യത്യസ്ത ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം വ്യത്യസ്ത യന്ത്രങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം യന്ത്രങ്ങളും ആളുകളും തമ്മിലുള്ള ആശയവിനിമയം എന്നിവയിലെ പുരോഗതി അതിനാൽ ഈ വ്യത്യസ്തമായ കാര്യങ്ങളെല്ലാം വൈദ്യുതിയുടെ ആവിർഭാവത്തിന്റെ സഹായത്തോടെ സാധ്യമായി വ്യാവസായിക വിപ്ലവത്തിന്റെ പോരായ്മകൾ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിലും സമൂഹത്തിന്റെ വളർച്ചയിലും വ്യാവസായിക വിപ്ലവം ഒരു സുപ്രധാന കുതിച്ചുചാട്ടമായിരുന്നെങ്കിലും വ്യത്യസ്തമായ പ്രതികൂല വശങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് നെഗറ്റീവ് വശങ്ങൾ വ്യവസായവൽക്കരണത്തിന്റെ വർദ്ധനവ് സമൂഹത്തിലെ മാലിന്യ ഉൽപന്നങ്ങളുടെ അളവ് വർദ്ധിപ്പിച്ചു ഇവ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു വ്യാവസായിക വിപ്ലവത്തിന്റെ രണ്ടാമത്തെ പ്രതികൂലമായ അല്ലെങ്കിൽ പ്രതികൂലമായ പ്രത്യാഘാതം തൊഴിലാളികളുടെ മോശം തൊഴിൽ അന്തരീക്ഷത്തിലെ വർദ്ധനവാണ് മൂന്നാമത്തേത് കാര്യക്ഷമതയില്ലായ്മയാണ് അതിനാൽ വ്യാവസായിക വിപ്ലവത്തിന്റെ വ്യത്യസ്ത പോരായ്മകൾ ഇവയാണ് വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് പത്തൊൻപതുകളുടെ 50 കളിൽ ആരംഭിച്ച് 50 വർഷത്തിലേറെയായി തുടരുന്ന ഇന്റർനെറ്റ് വിപ്ലവം അതിനാൽ ഈ ഇന്റർനെറ്റ് വിപ്ലവം ആരംഭിച്ചത് വിവിധ കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖല നിർമ്മിക്കാനുള്ള സർക്കാർ സ്പോൺസർ പ്രോജക്റ്റിലാണ് എന്നാൽ ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടറുകൾ വളരെ വലുതായിരുന്നു ഈ കമ്പ്യൂട്ടറുകൾ പോർട്ടബിൾ ആയിരുന്നില്ല അതിനാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയയ്ക്കാൻ കഴിയും എന്ന ആശയം തെളിയിക്കാൻ ഈ സർക്കാർ സ്പോൺസർ ചെയ്ത പദ്ധതി പ്രാപ്തമാക്കി ഇപ്പോൾ വ്യവസായങ്ങളിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ചോദ്യം അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ കരുതുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അർത്ഥമാക്കുന്നത് വ്യവസായങ്ങളിലെ ഈ വ്യത്യസ്ത യന്ത്രങ്ങൾ വ്യത്യസ്ത കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കും ഈ കണക്റ്റിവിറ്റി വഴി ഈ മെഷീനുകളുടെ അവസ്ഥയെക്കാൾ കൂടുതൽ കാര്യക്ഷമമായി നിരീക്ഷിക്കുക എന്നതാണ് സാധ്യമാകുക അതിനാൽ ഈ കമ്പ്യൂട്ടർ ശൃംഖലയുടെ ആശയം തെളിയിക്കപ്പെട്ടു പിന്നീട് വേൾഡ് വൈഡ് വെബിന്റെ ആവിർഭാവം വന്നു ഇപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്നത് സമൂഹത്തിലും വ്യവസായങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ വ്യവസായങ്ങളിലും ജനപ്രിയമായി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ധാരാളം ഇന്റർനെറ്റ് ഉപയോഗമുണ്ട് വേൾഡ് വൈഡ് വെബിന്റെ ഉപയോഗവും മറ്റും അതിനാൽ വർഷങ്ങളായി കമ്പ്യൂട്ടിംഗ് ശേഷി വർദ്ധിച്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾക്ക് സമാനമായ ശക്തിയുള്ള ചെറിയ വലിപ്പത്തിലുള്ള കമ്പ്യൂട്ടറുകൾ നമുക്കുണ്ട് ഈ കമ്പ്യൂട്ടിംഗ് ശേഷി വർദ്ധിച്ചു ഈ കമ്പ്യൂട്ടറുകളും പോർട്ടബിൾ ആയി മാറി അതിനാൽ ഈ പോർട്ടബിലിറ്റി കാരണം ഇന്റർനെറ്റും വളരെ ജനപ്രിയമായിത്തീർന്നു എല്ലാവർക്കും ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഈ കമ്പ്യൂട്ടറുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലവിലിരുന്നതിനേക്കാൾ വളരെ ഉയർന്ന പ്രകടനമാണ് ഉള്ളത് മാത്രമല്ല ഇവ ഇപ്പോൾ പോർട്ടബിൾ ആയതിനാൽ ഇത് പോർട്ടബിളും വിലകുറഞ്ഞതുമാണ് കമ്പ്യൂട്ടറുകൾ വളരെ വിലകുറഞ്ഞതാണ് അതിനാൽ ഇൻറർനെറ്റും വളരെ പ്രചാരത്തിലായതും വേൾഡ് വൈഡ് വെബിന്റെ ആവിർഭാവത്തോടെ വ്യത്യസ്ത വ്യാവസായിക പ്രക്രിയകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ വ്യാവസായിക മേഖലകളിലെ ഉപയോഗത്തിനായി വ്യത്യസ്ത ഇന്റർനെറ്റ് അധിഷ്ഠിത അല്ലെങ്കിൽ വെബ് അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ചെടുത്തതും അതുകൊണ്ടാണ് ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടർ ശൃംഖലയുടെയും മറ്റും ആവിർഭാവത്തോടെ വലിയ ഭൂമിശാസ്ത്രപരമായ ദൂരത്തിൽ അതിവേഗം വിവരങ്ങൾ കൈമാറാൻ ഇപ്പോൾ സാധ്യമാണ് അത് നേരത്തെ സാധ്യമായിരുന്നില്ല അതിനാൽ ഇപ്പോൾ വ്യത്യസ്ത വ്യവസായങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടാനും അവ ഭൂമിശാസ്ത്രപരമായി ഒന്നിച്ച് സ്ഥിതിചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അവർ ഭൂമിശാസ്ത്രപരമായി വളരെ അകലെയായിരിക്കാം പക്ഷേ ഇപ്പോഴും അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയും പിന്നീട് വ്യാവസായിക ഇന്റർനെറ്റ് വന്നു ഇതാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്ന ഈ പുതിയ വിപ്ലവം വ്യാവസായിക ഇന്റർനെറ്റ് വിപ്ലവം ഇത് ഇന്റർനെറ്റ് അധിഷ്ഠിത സാങ്കേതികവിദ്യകളെ വ്യവസായങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് അതിനാൽ നിലവിൽ ഞങ്ങൾ മൂന്നാം തരംഗത്തിനോ വ്യാവസായിക ഇന്റർനെറ്റ് തരംഗത്തിനോ കീഴിലാണ് അത് ഇതുവരെ അതിന്റെ പാരമ്യത്തിലെത്തിയിട്ടില്ല GE അനുസരിച്ച് വ്യാവസായിക ഇന്റർനെറ്റിനെ ആഗോള വ്യാവസായിക സംവിധാനത്തിന്റെ കൂട്ടായ്മയായി നിർവചിക്കാം കുറഞ്ഞ ചെലവ് സെൻസിംഗ് ഇന്റർനെറ്റ് വഴിയുള്ള പരസ്പരബന്ധം ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടിംഗ് അനലിറ്റിക്സ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഞങ്ങൾ സെൻസിംഗ് ഇന്റർകണക്റ്റിവിറ്റി എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ കമ്പ്യൂട്ടിംഗിനെയും അനലിറ്റിക്സിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യാവസായിക ഇന്റർനെറ്റിന്റെ വികസനത്തിലും സംയോജനത്തിലും മൂന്ന് വ്യത്യസ്ത തൂണുകളാണിത് അതിനാൽ വ്യാവസായിക ഇന്റർനെറ്റിന് മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ആദ്യത്തേത് ആ ബുദ്ധിശക്തിയുള്ള യന്ത്രങ്ങളാണ് അതിനാൽ വ്യത്യസ്ത കമ്പ്യൂട്ടിംഗ് ഘടകങ്ങളുടെ ആമുഖമോ സംയോജനമോ ഉപയോഗിച്ച് മെഷീനുകൾ കൂടുതൽ ബുദ്ധിപരമാക്കി രണ്ടാമത്തെ പ്രധാന ഘടകം വിപുലമായ അനലിറ്റിക്സ് ആണ് മൂന്നാമത്തേത് ഞങ്ങൾക്ക് ജോലിയിൽ ആളുകളുണ്ട് എന്നതാണ് വ്യത്യസ്ത ഉപകരണങ്ങളും വ്യത്യസ്ത മെഷീനുകളും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളായ ഇന്റലിജന്റ് മെഷീനുകൾ ഇവയാണ് അവ സംയോജിപ്പിച്ചിരിക്കില്ല സെൻസർ ആക്യുവേറ്ററുകൾ വഴിയും മറ്റ് നൂതന ഐടി ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു വിപുലമായ അനലിറ്റിക്സ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വലിയ അളവിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ വ്യത്യസ്ത ഉപകരണങ്ങളിൽ നിന്ന് ജനറേറ്റുചെയ്ത ഡാറ്റ അഡ്വാൻസ്ഡ് പ്രെഡിക്റ്റീവ് അൽഗോരിതങ്ങളിലേക്കുള്ള ഇൻപുട്ട് ആണ് അവ നിർദ്ദേശിക്കപ്പെടുന്നു കൂടാതെ ഈ അൽഗരിതങ്ങളിൽ പലതിനും അവയുടെ അടിത്തറയുണ്ട് വിപുലമായ സ്ഥിതിവിവരക്കണക്കുകളിൽ അവയുടെ ഉത്ഭവം ഉണ്ട് നൂതന മെഷീൻ ലേണിംഗിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കാനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഈ വ്യത്യസ്ത ആളുകൾ ഇപ്പോൾ എവിടെയാണെന്നത് പരിഗണിക്കാതെ തന്നെ ഈ വ്യത്യസ്ത ആളുകൾക്ക് മെഷീനുകൾ നിരീക്ഷിക്കാൻ കഴിയും അവ സ്ഥിതിചെയ്യുന്നില്ല അവർ എവിടെയാണ് പക്ഷേ അകലത്തിൽ സ്ഥിതിചെയ്യാം ഇപ്പോൾ ഇത് സാധ്യമാണ് വ്യവസായങ്ങൾക്ക് കൂടുതൽ വഴക്കവും ഗുണമേന്മയുള്ള സേവനങ്ങളും നൽകുന്നതിന് യന്ത്രങ്ങളുടെ അവസ്ഥ നിരീക്ഷിക്കാൻ ആളുകൾ അതിനാൽ ഇവ മൂന്ന് വ്യത്യസ്ത പ്രധാന ഘടകങ്ങളാണ് ഇന്റലിജന്റ് മെഷീനുകൾ വ്യത്യസ്ത തരം മെഷീനുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥിതിചെയ്യുന്നു അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മെഷീനുകൾ നൂതന സെൻസറുകളും ആക്യുവേറ്ററുകളും ഉപയോഗിച്ച് നിരീക്ഷിക്കാനാകും അതിനാൽ മൊത്തത്തിൽ എല്ലാം വ്യത്യസ്ത സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഘടകങ്ങൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു നൂതന അനലിറ്റിക്സ് വിവിധ തരം മെഷീനുകളിൽ നിന്നും സെൻസറുകളിൽ നിന്നും സൃഷ്ടിക്കുന്ന വലിയ ഡാറ്റ ഈ ഡാറ്റ അഡ്വാൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ ലേണിംഗ് AI ടെക്നിക്കുകൾ എന്നിവയുടെ സഹായത്തോടെ വിശകലനം ചെയ്യാനും വ്യത്യസ്ത പ്രവചനങ്ങൾ നടത്താനും ഈ പ്രവചനങ്ങൾക്കകത്ത് അടിസ്ഥാനപരമായി ഇത് ഇപ്പോൾ സാധ്യമാണ് ഇന്റലിജന്റ് മെഷീനുകൾ ഓട്ടോമേറ്റഡ് ആകുന്നതിനും ഈ ഓട്ടോമേഷന്റെയും ഇന്റലിജന്റ് മെഷീനുകളുടെയും യുഗം നൂതന അനലിറ്റിക്സിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ജോലിസ്ഥലത്തുള്ള ആളുകൾ അതിനാൽ ഇപ്പോൾ വെബ് മൊബൈൽ ഇന്റർഫേസ് എന്നിങ്ങനെ വ്യത്യസ്തമായ സഹകരണ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത് സാധ്യമാണ് അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയും അവർക്ക് പരസ്പരം ബന്ധം നിലനിർത്താൻ കഴിയും കൂടാതെ അവർ ലോകത്ത് എവിടെയാണ് സ്ഥിതിചെയ്യുന്നത് എന്നത് പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് കണക്റ്റുചെയ്യാനാകും പരസ്പരം അതിനാൽ അടിസ്ഥാനപരമായി ഒരു ഡോക്ടർക്ക് ഇപ്പോൾ അവരുടെ രോഗികളുമായി ഫലത്തിൽ സംവദിക്കാൻ കഴിയും ഒരു തൊഴിലാളിക്ക് എവിടെനിന്നും ഒരു യന്ത്രം നിയന്ത്രിക്കാൻ കഴിയും ഇത് സിസ്റ്റത്തെ കൂടുതൽ ബുദ്ധിപരമാക്കുകയും ഈ സാങ്കേതികവിദ്യയായ വ്യാവസായിക ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിലൂടെ വ്യത്യസ്ത മെഷീനുകൾ വളരെ എളുപ്പത്തിൽ പരിപാലിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയും കൂടാതെ മൊത്തത്തിലുള്ള ജോലിസ്ഥലം മെച്ചപ്പെടുത്താനും കഴിയും ഈ വ്യത്യസ്ത വ്യവസായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും വ്യാവസായിക ഇന്റർനെറ്റ് വാണിജ്യ വ്യോമയാനം റെയിൽ ഗതാഗതം വൈദ്യുതി ഉൽപ്പാദനം എണ്ണ വാതക മേഖലകൾ ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ വ്യത്യസ്ത പ്രയോഗങ്ങൾ വ്യാവസായിക ഇന്റർനെറ്റിന്റെ ഈ വ്യത്യസ്ത ആപ്ലിക്കേഷനുകളിൽ ചിലത് ഇവയാണ് മെഷീനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതിനാൽ ഞങ്ങൾ മെഷീനുകൾ പിന്നെ സൌകര്യങ്ങൾ കപ്പൽ നെറ്റ്വർക്ക് എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ക്രമേണ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഞങ്ങൾ സാധാരണ ബുദ്ധിയുള്ള യന്ത്രങ്ങളിൽ നിന്ന് ബുദ്ധിയുള്ള സംവിധാനങ്ങളിലേക്ക് ആത്യന്തികമായി ബുദ്ധിപരമായ തീരുമാനമെടുക്കൽ സംവിധാനങ്ങളിലേക്ക് ലോകത്തിലേക്ക് നീങ്ങുകയാണ് അതിനാൽ ഇതാണ് എന്താണ് എങ്ങനെ നാം ക്രമേണ സ്വയം രൂപാന്തരപ്പെടുന്നു അതിനാൽ മൊത്തത്തിൽ ഈ മെഷീൻ സൌകര്യങ്ങളുടെ ഫ്ലീറ്റിനും നെറ്റ്വർക്കിനും അനുസൃതമായി ഞങ്ങൾ വിവിധ തലങ്ങളിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നു ഞങ്ങൾക്ക് അസറ്റ് ഒപ്റ്റിമൈസേഷൻ ഫെസിലിറ്റി ഒപ്റ്റിമൈസേഷൻ ഫ്ലീറ്റ് ഒപ്റ്റിമൈസേഷൻ നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ എന്നിവ ഉണ്ടാകും ഇവ മൊത്തത്തിൽ വ്യാവസായിക ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വ്യത്യസ്ത നേട്ടങ്ങളാണ് വ്യാവസായിക സാഹചര്യങ്ങൾ വ്യാവസായിക പ്രക്രിയകൾ യന്ത്രസാമഗ്രികൾ നിരീക്ഷണം മൊത്തത്തിലുള്ള പ്രവർത്തന സാഹചര്യം ഈ വ്യത്യസ്ത വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ആളുകളുടെ സുരക്ഷ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വാണിജ്യ വ്യോമയാനത്തിന്റെ കാര്യത്തിൽ വ്യാവസായിക ഇന്റർനെറ്റ് എയർലൈൻ പ്രവർത്തനങ്ങളും അസറ്റ് മാനേജ്മെന്റും മെച്ചപ്പെടുത്തി വാണിജ്യ വ്യോമയാന വ്യവസായങ്ങൾക്ക് പ്രയോജനം ചെയ്തു ഇപ്പോൾ എയർലൈൻ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വ്യാവസായിക ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മൊത്തത്തിലുള്ള ഇന്ധന ഉപഭോഗം കുറയ്ക്കുക ജീവനക്കാരെ ഫലപ്രദമായി നിയന്ത്രിക്കുക ഫ്ലൈറ്റുകൾ ഫലപ്രദമായി ഷെഡ്യൂൾ ചെയ്യുക കാലതാമസം കുറയ്ക്കുക വ്യത്യസ്ത ഫ്ലൈറ്റുകളുടെ റദ്ദാക്കൽ എന്നിവ സാധ്യമാണ് അസറ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എഞ്ചിനുകളും വിവിധ യന്ത്രങ്ങളുടെ മറ്റ് ഭാഗങ്ങളും ശരിയായി പരിപാലിക്കുന്നതിന് വ്യത്യസ്ത മെഷീനുകൾ സമയബന്ധിതമായി നന്നാക്കാൻ ഇപ്പോൾ സാധ്യമാണ് വ്യാവസായിക ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തോടെ തത്സമയ വിശകലനവും പ്രവചന അൽഗോരിതങ്ങളുടെ പ്രയോഗവും ഇപ്പോൾ റെയിൽ ഗതാഗതം സാധ്യമാണ് മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണി ചെലവ് കുറയ്ക്കുന്നതിനും എഞ്ചിനുകൾ പോലുള്ള വിവിധ യന്ത്രഭാഗങ്ങളുടെ വ്യത്യസ്ത തകർച്ച തടയുന്നതിനും ഇത് സഹായിക്കും സോഫ്റ്റ്വെയറിന്റെ ലഭ്യത ഓപ്പറേറ്റർമാർക്ക് മുഴുവൻ സിസ്റ്റത്തിന്റെയും തത്സമയ അവലോകനം നൽകുന്നതിനും സഹായിക്കുന്നു അതിനാൽ ഒരു സോഫ്റ്റ്വെയറിലെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വ്യത്യസ്ത യന്ത്രസാമഗ്രികളുടെ അവസ്ഥ തത്സമയം തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനായി വികസിപ്പിക്കാൻ കഴിയും അതിനാൽ ഉദാഹരണത്തിന് റെയിൽ ഓപ്പറേറ്റർക്ക് ട്രെയിനുകളും അവയുടെ അവസ്ഥകളും പരിപാലിക്കാനും നിരീക്ഷിക്കാനും ഒപ്റ്റിമൽ തീരുമാനങ്ങൾ എടുക്കാനും കഴിയും വ്യത്യസ്ത ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒപ്റ്റിമൽ ട്രെയിൻ ഷെഡ്യൂളിംഗ് ഇപ്പോൾ സാധ്യമാണ് വൈദ്യുതി മേഖലയിലെ വൈദ്യുതി ഉൽപ്പാദനവും വൈദ്യുതി മുടക്കവും ഒരു വലിയ പ്രശ്നമാണ് കൂടാതെ വൈദ്യുതി കേബിളുകൾ എവിടെയെങ്കിലും സ്ഥാപിച്ചിരിക്കുന്നതുപോലുള്ള പ്രശ്നങ്ങൾ കാരണം വൈദ്യുതി ലൈൻ പൊട്ടിയേക്കാം അതിനാൽ വൈദ്യുത ലൈൻ തകർന്നതോ ഉപകരണങ്ങൾ എവിടെയാണ് താഴ്ന്നതെന്നോ കണ്ടെത്തേണ്ടത് ഇപ്പോൾ പ്രധാനമാണ് അതിനാൽ വ്യാവസായിക ഇന്റർനെറ്റിന്റെ സഹായത്തോടെ എല്ലാം ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കും അതിനാൽ ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുന്നിടത്തെല്ലാം തത്സമയം സ്റ്റാറ്റസ് അപ്ഡേറ്റുകളും പ്രകടനവുമായി ബന്ധപ്പെട്ട ഡാറ്റയും നേടാനാകും അതിനാൽ ഇത് ഇന്റർനെറ്റ് വഴിയാണെങ്കിൽ ലോകത്തെവിടെ നിന്നും ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയും ഇൻകമിംഗ് ഡാറ്റയുടെ വിശകലനം റിപ്പയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഫീൽഡ് പരിശോധനയുടെ ഭാവി ചെലവിൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ സ്ഥിതിവിവരക്കണക്കുകൾ നൽകും എണ്ണ വാതക മേഖലയിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും വ്യാവസായിക ഇന്റർനെറ്റ് ഉപയോഗിക്കാം അതിനാൽ സ്റ്റാറ്റിസ്റ്റിക്സ് മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള വ്യത്യസ്ത പ്രവചന വിശകലനങ്ങൾ വ്യത്യസ്ത ഉപകരണങ്ങളിൽ നിന്നുള്ള ഇൻകമിംഗ് ഡാറ്റ വിശകലനം ചെയ്യാനും ഭൂഗർഭ റിസർവോയറിന്റെ സ്വഭാവം മെച്ചപ്പെടുത്താനും സഹായിക്കും സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങൾ വിവരങ്ങളുടെ ലഭ്യത വ്യത്യസ്ത ഡോക്ടർമാരുടെ പ്രശസ്തി വിവിധ മരുന്നുകളുടെ സ്റ്റോക്കിന്റെ ലഭ്യത വിവിധ ആരോഗ്യ സംരക്ഷണ യന്ത്രങ്ങളുടെ ലഭ്യത ഹെൽത്ത് കെയർ ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ആരോഗ്യ സംരക്ഷണ ഡൊമെയ്നിൽ വ്യാവസായിക ഇന്റർനെറ്റ് രോഗികൾക്ക് ശരിയായ ഡോക്ടറെ തിരഞ്ഞെടുക്കാൻ സഹായിക്കും ശരിയായ സൌകര്യം ശരിയായ ആശുപത്രി തത്സമയം അതിനാൽ ഹെൽത്ത് കെയർ സെന്ററിലെ വ്യാവസായിക ഇന്റർനെറ്റ് വിപ്ലവം വളരെ നിർണായകമായി കണക്കാക്കപ്പെടുന്നു ഹെൽത്ത് കെയർ ഉപകരണങ്ങളുടെ കണക്റ്റിവിറ്റിയും വളരെ പ്രധാനമാണ് ഈ കണക്റ്റിവിറ്റി അടിസ്ഥാനപരമായി സഹായിക്കുന്നു ഡാറ്റ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയയ്ക്കാൻ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യസ്ത രോഗികളുടെയോ മറ്റെന്തെങ്കിലുമോ ഡാറ്റ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയയ്ക്കുന്നതിന് മാത്രമല്ല ഈ സഹകരണ പ്ലാറ്റ്ഫോമിലൂടെയും മറ്റും വ്യത്യസ്ത വിവരങ്ങൾ പങ്കിടുന്നതിന് പരസ്പരം പരസ്പരം ബന്ധപ്പെട്ടിരിക്കാൻ രോഗികളെ സഹായിക്കാനും ഇപ്പോൾ സാധ്യമാണ് ഹെൽത്ത് കെയർ ഡാറ്റയുടെ ലഭ്യതയും ആരോഗ്യ സംരക്ഷണ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു വ്യാവസായിക ഇന്റർനെറ്റിന്റെ വ്യത്യസ്ത ഗുണങ്ങൾ ഇവയാണ് വ്യാവസായിക ഇന്റർനെറ്റ് സ്വീകരിക്കുന്നതിലൂടെ ഓരോ 15 വർഷത്തിലും ഇന്ധനം ലാഭിക്കാൻ ഇപ്പോൾ സാധ്യമാണ് അതിനാൽ ഓരോ 15 വർഷത്തിലും വ്യാവസായിക ഇന്റർനെറ്റ് സ്വീകരിക്കുന്നതിലൂടെ വാണിജ്യ വ്യോമയാന വ്യവസായങ്ങൾ 30 ബില്യൺ ഡോളറിലധികം ലാഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പവർ പ്ലാന്റുകളുടെ ഗ്യാസ് പവർ വിഭാഗങ്ങൾ 65 ബില്യൺ ഡോളറിലധികം ലാഭിക്കും ഹെൽത്ത് കെയർ സെന്ററിലെ സിസ്റ്റം കാര്യക്ഷമതയിൽ 1 ശതമാനം കുറവ് 63 ബില്യൺ ഡോളർ ലാഭിക്കും ലോക റെയിൽ ശൃംഖല വഴിയുള്ള ചരക്ക് ഗതാഗതം 27 ബില്യൺ ഡോളർ ലാഭിക്കും പര്യവേക്ഷണ വേളയിൽ മൂലധന ചെലവിൽ ഒരു ശതമാനം കുറവ് എണ്ണ വാതക വ്യവസായങ്ങളുടെ വികസനം 90 ബില്യൺ ഡോളർ ലാഭിക്കും ക്ലൌഡ് അധിഷ്ഠിത സംവിധാനത്തിന്റെ ആവിർഭാവം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ മെച്ചപ്പെടും അതിനാൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഈ കണക്കുകൾ ക്ലൌഡ് അധിഷ്ഠിത സംവിധാനങ്ങളുടെ സഹായത്തോടെ ഒറ്റപ്പെട്ട സംവിധാനങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ ഇനിയും മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും അതിനാൽ കംപ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആവശ്യമായി വരുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കുള്ള ആക്സസ് ലഭിക്കാൻ ക്ലൌഡ് അധിഷ്ഠിത സംവിധാനങ്ങൾ നിങ്ങളെ സഹായിക്കും വ്യാവസായിക ഇൻറർനെറ്റിന്റെ ഗുണങ്ങളുടെ സംഗ്രഹമാണിത് വിവിധ വ്യാവസായിക മേഖലകളിലെ വ്യോമയാന പവർ ഹെൽത്ത് ഓയിലും റെയിൽ ഗ്യാസും വ്യാവസായിക ഇൻറർനെറ്റ് സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്ന ഈ ഉൽപ്രേരകങ്ങളിൽ ചിലത് ഇവയാണ് ഉപകരണങ്ങൾ അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് സുരക്ഷാ പ്ലാറ്റ്ഫോം ബിസിനസ് പ്രക്രിയകൾ എന്നിവയുടെ കാര്യത്തിൽ നൂതനതകൾ 1 ആണ് നമ്പർ 2 ഇൻഫ്രാസ്ട്രക്ചറാണ് മൂന്നാം നമ്പർ സൈബർ സെക്യൂരിറ്റി മാനേജ്മെന്റാണ് ഇവയിൽ ഓരോന്നും ഞങ്ങൾക്കുണ്ട് മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ കൂടുതൽ വിശദമായി ഇതിനകം കടന്നുപോയി ടാലന്റ് മാൻ പവർ കഴിവുള്ള മനുഷ്യശക്തി അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പുതുതലമുറ എഞ്ചിനീയറിംഗ് ടെക്നിക്കുകൾ ഡാറ്റാ സയന്റിഫിക് ടെക്നിക്കുകൾ യൂസർ ഇന്റർഫേസ് ടെക്നിക്കുകൾ എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ വ്യാവസായിക ഇന്റർനെറ്റിന് ലോകമെമ്പാടും നിരവധി നേട്ടങ്ങളും വാഗ്ദാനങ്ങളും ഉണ്ടെന്ന് ഇപ്പോൾ നിഗമനം ചെയ്യാം ഇത് വ്യാവസായിക ഇന്റർനെറ്റാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നത് ഇത് വളരെ ജനപ്രിയമാണ് ചെറുകിട വ്യവസായമോ ഇടത്തരം വ്യവസായമോ അല്ലെങ്കിൽ വലിയ തോതിലുള്ളതോ ആകട്ടെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു വ്യവസായം വ്യാവസായിക ഇൻറർനെറ്റും അതിന്റെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകളും വ്യത്യസ്തമായ പ്രയോജനങ്ങൾ കണ്ടെത്തുന്നു വ്യവസായങ്ങളിലെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ജോലിസ്ഥലത്തിന്റെ കാര്യക്ഷമത കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഈ ഉപയോഗത്തിലൂടെ ഒരാൾ കുതിച്ചുചാടേണ്ടതുണ്ട് എന്നാൽ ഈ നൂതനമായ നടപടികളിലൂടെയും വിവിധ പ്ലാറ്റ്ഫോമുകളുടെയും വ്യാവസായിക ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളുടെയും ദത്തെടുക്കലിലൂടെ കൂടുതൽ നൂതനതകൾ ചെലവ് കുറയ്ക്കുക എന്നതും പ്രധാനമാണ് ഇവയെല്ലാം സ്വീകരിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്താനും വെട്ടിക്കുറയ്ക്കാനും ഇപ്പോൾ സാധ്യമാണ് പ്രവർത്തനത്തിൽ വ്യാവസായിക ഇന്റർനെറ്റ് സ്വീകരിക്കുന്നതിലൂടെ കുറഞ്ഞ പ്രകടന പ്രശ്നങ്ങൾ ഈ റഫറൻസുകളിൽ ചിലത് ഇവയാണ് വ്യാവസായിക ഇന്റർനെറ്റിനെക്കുറിച്ചുള്ള ഈ പ്രത്യേക പ്രഭാഷണം ഇതോടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടതുപോലെ വ്യാവസായിക ഇന്റർനെറ്റിന് വ്യാവസായിക ഐഒടിയുമായി വളരെയധികം സാമ്യമുണ്ട് അതിൽ വീണ്ടും ധാരാളം ഉണ്ട് വ്യവസായത്തിലെ ഓട്ടോമേഷൻ പ്രശ്നങ്ങളുമായി സാമ്യമുണ്ട് എന്നാൽ ഇവയെല്ലാം സമാനമാണെങ്കിലും അവയ്ക്ക് അവരുടേതായ വ്യതിരിക്തമായ ഐഡന്റിറ്റി ഉണ്ട് ഉത്ഭവവും വ്യത്യസ്തമാണ് അങ്ങനെയാണ് ഇവയും സ്വന്തം നിലയിൽ വളരെ പ്രചാരത്തിലായത്